ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ I എല്ലാവർക്കും നമസ്ക്കാരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ചുള്ള മൊഡ്യൂൾ നമ്പർ 28 ലാണ് ഈ പ്രൊജക്ഷനുകൾ നമ്മൾ അവിടെ പഠിച്ചു ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഒരു ത്രിമാന വസ്തു ഉണ്ട് വ്യത്യസ്ത വീക്ഷണകോണുകളിൽ ഈ ത്രിമാന വസ്തു സ്ഥാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അവയിലൊന്ന് ഈ ദിശയിലാണ് മറ്റൊന്ന് ഈ ദിശയിൽ നിന്നുള്ളതാണ് മറ്റൊന്ന് ഈ ദിശയിൽ നിന്നുള്ളതാണ് ഈ ദിശയിൽ നിന്ന് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടും ഈ തിരശ്ചീന രേഖയും ഈ തിരശ്ചീന രേഖയും നമുക്ക് കാണാനാകും അതിനാൽ നമ്മൾ ഈ ബോക്സുകൾ ചെയ്യപ്പെടുന്നത് എന്ത് തന്നെ ആയാലും അതുപോലെ നമുക്ക് മറ്റ് വ്യൂസ് നമ്മൾ ഈ ദിശയിൽ നിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് നോക്കുകയാണ് അതിനാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭാഗത്തിന് നമുക്ക് മറ്റെന്തെങ്കിലും നിറം ഉപയോഗിക്കാം ഈ ലംബ രേഖയും ഈ രേഖയുമായി മാപ്പു എന്ന് വിളിക്കുന്നു അതിനാൽ ഇതായിരിക്കും നമുക്ക് ലഭിക്കുക അവസാന ക്ലാസ്സിൽ ഈ ത്രിമാന ചിത്രം പ്രോജെക്ഷണൽ വ്യൂസ് ലൈൻ ഉണ്ട് ആ ഭാഗം പുറകിൽ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ നമ്മൾ ഫ്രന്റ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്ലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക ഇത് നമുക്ക് മധ്യത്തിൽ കാണാനാകും വീണ്ടും ഈ ഭാഗം അതിന്റെ പുറകുവശത്ത് ഈ മുഴുവൻ ഭാഗവും മറ്റൊരു രേഖ പോലെ നമുക്ക് കാണാനാകും അതായത് ഇത് ഈ ഭാഗം നമുക്ക് ലംബമായി കാണാനാകും അതുപോലെ പുറകുവശത്തും എന്ത് തരത്തിലുള്ള ലംബമായ ഭാഗമായാലും വീണ്ടും ഈ ഭാഗം മുഴുവനും നമുക്ക് ഇത് പോലെ കാണാനാകും ഈ ഒന്ന് നമുക്ക് അങ്ങനെ കാണാനാകും ഈ ഭാഗം നമുക്ക് ആ വിധത്തിൽ കാണാനാകും ഈ രേഖ മുഴുവൻ നമുക്ക് ആ രീതിയിൽ നിരീക്ഷിക്കാനാകും അതിനു സമാന്തരമായുള്ള പുറകുവശം ഒരുപക്ഷേ ആ രേഖയാണെങ്കിൽ വീണ്ടും നമുക്ക് അത് ആ രീതിയിൽ കാണാനാകും ഈ രീതിയിലാണ് നമ്മൾ വ്യൂസ് വീക്ഷിക്കേണ്ടതും അവ നിർമ്മിക്കാൻ ശ്രമിക്കേണ്ടതും ഇത് ഇടത് ദിശയിൽ നിന്നുള്ളത് പോലെയാണെങ്കിൽ വലത് വശത്ത് നിരീക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വലതുവശത്തെ ലംബ തലം ചെയ്യണം ഈ രേഖകൾക്ക് സമാന്തരമായി നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ ഈ നീളം എന്തുതന്നെ ആയാലും ആ നീളം നമ്മൾ ഇവിടെ നിർമ്മിക്കാൻ പോകുന്നു ഒപ്പം ഒരു ഉയരമുണ്ട് ആ ഉയരം നമ്മൾ ഇവിടെ കാണാൻ പോകുന്നു അതിനാൽ ഇതാണ് രേഖ നമുക്ക് മറ്റൊരു നിറം ഉപയോഗിക്കാം ഈ ഭാഗം നമുക്ക് ആ രീതിയിൽ നിരീക്ഷിക്കാനാകുകയും അവിടെ ഒരു മധ്യരേഖ ഉണ്ടാവുകയും ചെയ്യും അതിനാൽ അവിടെ നിന്നുള്ള മധ്യരേഖ ഇത് ഇവിടെ മുകളിലേക്ക് വരെ പോകുന്ന ലംബമായ തലം ചെയ്തിട്ടുള്ള ഒരു പൂർണ്ണമായ ചെരിവാണ് അത് അതുപോലെ ഇത് ഇവിടെയും ഈ ദൂരം ഈ ദൂരം തുല്യമായിരിക്കും അതുപോലെയാണ് നമുക്ക് ലഭിക്കുക ഇത് ഈ തലം വരെ ഒരു പിൻ ഇങ്ങനെയായിരിക്കും ആ ഉദാഹരണം പരിശീലിച്ചതിനു ശേഷം അടുത്തതിലേക്ക് പോകാം ഒരു സാധാരണ ഓട്ടോമൊബൈൽ കാറിനായുള്ള അത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ട് നമ്മൾ പ്രൊജക്ഷനുകൾ

അതിനാൽ പ്രൊജക്ഷനുകളിൽ ആണ് നമ്മൾ ഇപ്പോൾ ഇത് നിർമ്മിക്കാൻ പോകുന്നത് അതിനാൽ ആദ്യം നമുക്ക് ഒരു കാറിന്റെ ടോപ് വ്യൂ നോക്കാം ഈ ദിശയിൽ നിന്ന് കാറിന്റെ മുകളിലെ കാഴ്ച നമ്മൾ നിരീക്ഷിക്കണം അതായത് നമുക്ക് നേരിട്ട് ചക്രങ്ങളൊന്നും കാണാൻ കഴിയില്ല ആ ഭാഗങ്ങൾക്കുള്ളിൽ ഇതുപോലുള്ള ഒന്നും നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്നാൽ ആ ആകൃതിയിലുള്ള കാറിന്റെ മുകളിലെ ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിനാൽ നമുക്ക് ആ ഭാഗങ്ങൾ നിരീക്ഷിക്കാം അതിനാൽ മുകളിലെ ഭാഗം നമ്മൾ നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ലൈറ്റുകൾ മറ്റ് ഭാഗങ്ങളും ആ ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ബമ്പർ ആയിരിക്കും ഒരു വശത്തെ കാഴ്ച നമുക്ക് നിരീക്ഷിക്കാം നമ്മൾ ഇടത് ദിശയിൽ നിന്ന് വലത് ദിശയിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഒരു പ്ലെയിൻ ചെയ്താൽ അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അതിനാൽ ഈ ലൈറ്റുകൾ

നിങ്ങൾ നിരീക്ഷിക്കേണ്ട ആദ്യ കാര്യം ഫ്രണ്ട് വ്യൂ പൂർണമായും ഈ വരികൾക്കിടയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ വ്യൂവിനെ ചെയ്യുകയാണെങ്കിൽ ഈ മുഴുവൻ കാര്യവും കാരണം ഈ ഭാഗം ദൃശ്യമായിരിക്കും ഈ ഭാഗം ദൃശ്യമാകില്ല ഞാൻ ഒരിക്കൽ കൂടി പറയാം ഈ പ്ലെയിനിലേക്കു മറ്റ് കാര്യങ്ങളും നമുക്ക് ബോട്ടം വ്യൂ മറ്റ് കാര്യങ്ങളും തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ നമുക്ക് ഈ പൂർണ്ണമായ ചിത്രം ലഭിക്കുന്നതാണ് നമുക്ക് അത് ശ്രദ്ധാപൂർവ്വം നോക്കാം ഫ്രന്റ് വ്യൂ നമുക്ക് ഇത് കറുത്ത നിറത്തിൽ കാണിക്കാം ഫ്രണ്ട് വ്യൂവിനെ എന്ന് വിളിക്കുന്നു തേർഡ് ആംഗിൾ പ്രൊജക്ഷന്റെ മുകൾ ഭാഗത്ത് ഒരു കണ്ണാടി പോലെയാണ് നമ്മൾ അതിലേക്കു നോക്കുകയാണെങ്കിൽ ആ കണ്ണാടിയിൽ നിങ്ങൾക്കുള്ള പ്രൊജക്ഷൻ ലഭിക്കും അതിനാൽ ഇത് തേർഡ് ക്വാഡ്രന്റാണെന്ന് അവിടെ എവിടെയെങ്കിലും സ്ഥിതിചെയ്യുന്നു ഇതിനെ നമുക്ക് ഒരു കണ്ണാടി എന്ന് വിളിക്കാം മുകളിൽ നിന്ന് നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല പക്ഷേ ഇത് ഒരു കണ്ണാടി ആയതിനാൽ ഈ വസ്തു കണ്ണാടിയിലേക്കു പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേരിട്ട് ലഭിക്കുന്നു മൂന്നാമത്തേത് തുറക്കുക അവിടെ സൂക്ഷിക്കുക അതിനാൽ ഇത് ഒരു കണ്ണാടിയായി പ്രവർത്തിക്കുന്നു അതിനാൽ നിങ്ങളുടെ ടോപ്പ് വ്യൂ മുകളിലെ തലത്തിലേക്ക് പോകുന്നു ഇപ്പോൾ നമുക്ക് സൈഡ് വ്യൂ തുറക്കുന്നു അത് ഇടത് വശത്തെ കണ്ണാടിക്ക് തുല്യമായിരിക്കും കാരണം നമ്മൾ ഇത് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതായിരിക്കും കണ്ണാടി ഈ ദിശയിൽ നിന്ന് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈ വസ്തു പൂർണ്ണമായും ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുന്നു അതിനാൽ ആന്തരികമായി ആ കണ്ണാടിയിൽ സംഭവിക്കുന്ന പ്രൊജക്ഷൻ ഉടൻ തന്നെ ഇടതുവശത്ത് വരുന്നു അതുപോലെ മറ്റ് വ്യൂസ് വലതുവശത്താണ് അതിനാൽ വലതു ഭാഗത്തേത് വലതുവശത്ത് വരും ഇടതു ഭാഗത്തേത് ഇടതുവശത്ത് വരുന്നു മുകൾ ഭാഗത്തേത് മുകളിൽ വരുന്നു താഴ്ഭാഗത്തേത് താഴെ വരുന്നു പല കണ്ണാടികളും ആ ഉപരിതലത്തെ ബന്ധിപ്പിക്കുന്നതുപോലെയാണ് അത് നിങ്ങൾ ആ കണ്ണാടികൾ തുറക്കുമ്പോൾ നിങ്ങൾ ഇതിനകം തന്നെ നേടിയ പ്രൊജക്ഷനുകൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് അത് ലഭിക്കുന്നതിനുള്ള മാർഗമാണിത് കുറച്ച് പ്രൊജക്ഷനുകൾ ഉപസ്തംഭമോ കൊടിമരമോ ആയി നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു ദണ്ഡ് പോലെ അത് പിടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ദ്വാരം കുഴിക്കുന്നതിനുപകരം ഈ തലത്തിൽ ഒരാൾക്ക് ബോൾട്ട് ചെയ്യാൻ കഴിയും ഈ നിലയ്ക്ക് ഒരുതരം ചായ്വുള്ളതായിരിക്കും കൂടാതെ ഒരാൾക്ക് ഒരു ദണ്ഡ് താൽക്കാലികമായി നിർത്താനും കഴിയും ഈ ആവശ്യത്തിനായി നമ്മൾ ഇത്തരത്തിലുള്ള വസ്തു ഉപയോഗിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വശങ്ങളിൽ നിന്നും നമുക്ക് ഈ പ്രൊജക്ഷനുകൾ നിന്നുമെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നിരീക്ഷിക്കാൻ ആവുക അതിനെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് അത് പരിശീലിക്കാം ഫ്രന്റ് വ്യൂ രേഖ ഇതാണ് ബേസ് ലൈൻ രണ്ടാമതായി ഈ ഭാഗം ഈ ഭാഗം നമുക്ക് നോക്കാം കൂടാതെ ഈ ചെരിഞ്ഞ രേഖ താഴേയ്ക്ക് വരെ പോകുന്നു അതിനാൽ ഈ ഭാഗം വരെ നമുക്ക് ഒരു രേഖ കാണേണ്ടതായിട്ടുണ്ട് അതിനാൽ ആ ഭാഗം വരെ നമുക്ക് ഒരു രേഖ കാണാനാകും ഈ ഭാഗം പൂർണ്ണമായും താഴെ വരെ പോയി അതിനെ സ്പർശിക്കുന്നു അതിനാൽ ആ ഭാഗം പൂർണ്ണമായും താഴെ വരെ പോകുന്നു അതിനെ സ്പർശിക്കുന്നു അതുപോലെ ഈ ഭാഗം അവിടെ വരെ പോകുന്നു തുടർന്ന് ഒരു തിരശ്ചീന രേഖയുണ്ട് ഈ ഭാഗം അവിടെ വരെ പോകുന്നു ശേഷം അതിനെ സ്പർശിക്കുന്നു ജ്യാമിതിയെ അടിസ്ഥാനമാക്കിയുള്ള കൃത്യമായ അളവുകൾ നമുക്ക് അത് നിർമ്മിക്കാം അനന്തരം ആ രേഖ കാണാവുന്ന ഒരു സ്ഥിതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക ഒരു പ്ലെയിനിൽ ചെയ്യപ്പെടും അതിനാൽ ഈ മുഴുവൻ ഭാഗവും ഈ ഭാഗം ഇത് ഇത് ഇത് പൂർണ്ണമായും ഇത് ഒരു നേർരേഖയായി നമുക്ക് കാണാനാകും അതിനാൽ ആ നേർരേഖ മുഴുവൻ അതാണ് അതുപോലെ മുഴുവൻ അർദ്ധവൃത്തത്തിന്റെയും താഴ്ഭാഗം നമുക്ക് അത് ആ രീതിയിൽ കാണാനാകും അഗ്രം അതിനാൽ ഇത് അത്തരം വസ്തു പോലെയാണ് അതിനാൽ ഈ അഗ്രം ഈ അഗ്രവുമായി യോജിക്കുന്നു കൂടാതെ അവിടെ ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരമുണ്ട് അതിനാൽ അവിടെ കുറഞ്ഞത് കൂടിയത് തരം രേഖകൾ ഉണ്ടാകും അതിനാൽ ഡാഷ്ഡ് കാണപ്പെടുന്ന രീതി ഇങ്ങനെയാണ് നമുക്ക് ടോപ് വ്യൂ നമുക്ക് കാണാനാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അവിടെ കാണാനാകാത്ത ഒരു ഭാഗം ഉണ്ട് അത് ഓറഞ്ച് നിന്ന് നമുക്ക് ഈ രേഖ കാണാനാകും ഈ രേഖയും ഇതും നമുക്ക് കാണാനാകും അതുപോലെ അത് അതുവരേക്കും പോകുന്നു അത് അതുവരെ എത്തുന്നു അതിനാൽ ആ രേഖയും കൂടാതെ അവിടെ ഒരു പച്ച ശകലം ഉണ്ട് അതിനാൽ ഈ രേഖയും ഇതും അത് ഇതിനെ തടസ്സപ്പെടുത്തുന്നു കാരണം ഈ പച്ച ഭാഗം നമ്മൾ ഇവിടെ നിന്ന് അവിടെ വരെ കാണാൻ തുടങ്ങുന്നു അതിനാൽ അവിടെ നിന്ന് അവിടെ വരെയുള്ള പച്ച ഭാഗം വീണ്ടും ഈ ഭാഗം നമുക്ക് കാണാനാകും കൂടാതെ ഇതും ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാനാവുക ഈ ഭാഗം മുഴുവനായും ഈ ചെരിഞ്ഞിരിക്കുന്നതിന്റെ പ്രൊജക്റ്റുചെയ്ത ചിഹ്നമുള്ള ദ്വാരങ്ങൾ അത് മധ്യഭാഗം ആണെന്ന് സൂചിപ്പിക്കുന്നു വീണ്ടും ദ്വാരങ്ങൾ പ്ലസ് ചിഹ്നം ഇതാണ് നമ്മൾ നിരീക്ഷിക്കുന്ന രീതി നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധാലുവാണെങ്കിൽ മധ്യരേഖകൾ പരസ്പരം പൊരുത്തപ്പെടേണ്ടതാണ് കൂടാതെ ഈ ഡാഷ് ചെയ്തവ എല്ലാം ക്രമീകരിക്കുന്നു അതും ഈ ദ്വാരത്തിന്റെ സ്ഥാനവും തമ്മിൽ പൊരുത്തപ്പെടേണ്ടതാണ് ഇവിടെ ഇതെല്ലാം എന്തുതന്നെയായാലും അവയും പൊരുത്തപ്പെടേണ്ടതാണ് കൂടാതെ ഈ അച്ചുതണ്ട് ഇതുമായി പൊരുത്തപ്പെടണം അതിനാൽ വീണ്ടും ഈ പ്ലസ് അതിനാൽ അത് വലതുവശത്ത് വരുന്നു അതിനർത്ഥം ഇവിടെ വരണം എന്നാണ് അതിനാൽ നിങ്ങൾ നീട്ടുന്ന രേഖകൾ ഈ രേഖകൾക്കിടയിലായിരിക്കണം അതിനാൽ നമ്മൾ ഈ വ്യൂവിൽ രേഖകൾ ഈ വൃത്താകൃതിയിലുള്ള സ്ഥാനങ്ങളുമായി പൊരുത്തപ്പെടുന്നു അത്തരത്തിൽ ഒന്ന് ഈ രീതിയിലാണ് നമുക്ക് ഇവ കാണാനാവുക നിങ്ങൾ ഈ പ്രൊജക്ഷനുകൾ നിർമ്മിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് കൂടാതെ അവിടെ വീണ്ടും നിങ്ങളുടെ സൈഡ് വ്യൂവിന്റെ അത് കാണിക്കുന്നത് നല്ല പരിശീലനമാണ്